എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് 1ലെ പ്രഭാഷണ നമ്പർ 27ലേക്ക് സ്വാഗതം ഇന്റഗ്രൽ കാൽക്കുലസിനെക്കുറിച്ചുള്ള ചർച്ച ഞങ്ങൾ തുടരും ഇന്നത്തെ വിഷയം ഇന്റഗ്രൽ ചിഹ്നത്തിന് കീഴിലുള്ള ഡിഫറെന്സിയേഷൻ ആയിരിക്കും അതിനാൽ പ്രത്യേകിച്ചും നമ്മൾ ലെബ്നിറ്റ്സ് നിയമത്തെക്കുറിച്ച് സംസാരിക്കും അതിനാൽ ഇന്റഗ്രൽ ചിഹ്നത്തിന് കീഴിലുള്ള ഡിഫറെന്സിയേഷന് ഞങ്ങൾ അപ്ലൈ ചെയ്യുന്ന റൂൾ അതാണ് ഈ ലീബ്നിറ്റ്സ് നിയമത്തിന്റെ ഡെറിവേഷനും ചില പ്രോബ്ലങ്ങളും ഞങ്ങൾ പരിശോധിക്കും അതിനാൽ ഈ നിയമം നിർവചിക്കുന്നതിനും ചർച്ചചെയ്യുന്നതിനും പോകുന്നതിനുമുമ്പ് ശരാശരി മൂല്യ സിദ്ധാന്തങ്ങൾ ഞങ്ങൾ ഓർമ്മിക്കേണ്ടതുണ്ട് ഇവ ഡിഫറൻഷ്യൽ കാൽക്കുലസിലെ മുൻ പ്രഭാഷണങ്ങളിൽ ഞങ്ങൾ ഇതിനകം ചർച്ചചെയ്തു കഴിഞ്ഞു ഈ ലഗ്രാഞ്ച് ശരാശരി മൂല്യ സിദ്ധാന്തം ഇവിടെ ഈ അനുപാതം ഇവിടെ എന്ന് പറയുന്നു ഇവിടെ f ൽ തുടർച്ചയായതും a b യിൽ ഡിഫറെന്ഷിയബിളുലമായ അനുമാനങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നു അതിനാൽ ഈ ശരാശരി മൂല്യ സിദ്ധാന്തം ഉള്ളതിനാൽ ഈ ലഗ്രാഞ്ച് ശരാശരി മൂല്യ സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കി നമുക്ക് കുറച്ചുകൂടി ഉൾപ്പെടുത്താം അതിനാൽ ഞങ്ങൾക്ക് ഈ ഉണ്ട് കാരണം ഈ ഇന്റഗ്രൽ പരിഹരിച്ചാൽ f ന് a മുതൽ b വരെ ലിമിറ്റുണ്ട് അതിനാൽ ഇത് ആയിരിക്കും അതിനാൽ ഈ ഇവിടെ അതേ പദം തന്നെ ഇതിനെ കൊണ്ട് ഹരിക്കുന്നു അതിനാൽ ഇപ്പോൾ ഞങ്ങൾ മറ്റൊരു അനുമാനം ഉണ്ടാക്കും ഈ ആണെന്ന് ഞങ്ങൾ അനുമാനിക്കുന്നു അതിനാൽ ഇത് ഇപ്പോൾ ഉള്ളതിനാൽ ഇന്റഗ്രൽ കാൽക്കുലസിനായി മറ്റൊരു ശരാശരി മൂല്യ സിദ്ധാന്തം ലഭിക്കും അതിനാൽ ഇവിടെ നമുക്ക് ഈ നിയമം ഇവിടെ ലഭിക്കുന്നു അതിനാൽ അതിനാൽ ഇത് എന്താണ് ഇവിടെ എന്താണ് അർത്ഥമാക്കുന്നത് അതിനാൽ ഈ ഇന്റഗ്രേറ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത് ലിമിറ്റ് യുടെ വ്യത്യാസത്തിന് തുല്യമായിരിക്കും എന്നിട്ട് അതിനാൽ ഇന്റഗ്രാന്റ് g a മുതൽ b വരെയുള്ള ഇടവേളയിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുന്നു അതിനാൽ ഈ പോയിന്റ് എവിടെയാണെന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയില്ല എന്നാൽ ഈ ശരാശരി മൂല്യം സിദ്ധാന്തം ഈ ഇന്റഗ്രൽ ഇടവേളയിലെ ഏതെങ്കിലും ഘട്ടത്തിൽ g ന് തുല്യമാകുമെന്നും എന്ന ലിമിറ്റിന്റെ ഈ വ്യത്യാസത്താൽ ഗുണിക്കപ്പെടുമെന്നും പറയുന്നു അതിനാൽ ഈ രണ്ട് ശരാശരി മൂല്യ സിദ്ധാന്തങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഇപ്പോൾ ലീബ്നിറ്റ്സ് നിയമത്തിനായി മുന്നോട്ട് പോകാം അതിനാൽ ഈ റൂൾ പറയുന്നു നമുക്ക് ഇന്റഗ്രൽ ഉണ്ട് അതിനാൽ ഇത് ആൽഫ മുതൽ വരെയുള്ള ചില ഫoഗ്ഷനുകളാകാം കൂടാതെ ഇന്റഗ്രാൻഡ് രണ്ട് വേരിയബിളുകളുടെ ഫoഗ്ഷനാണ് അതിനാൽ അതിനാൽ ഇത് യുടെ ഫംഗ്ഷനാണെന്ന് ഞങ്ങൾ അനുമാനിക്കുന്നു കാരണം ഞങ്ങൾ ഈ x ൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു അതിനാൽ എന്താണ് ഈ ഇന്റഗ്രൽ ഈ ഇന്റഗ്രൽ ആൽഫയെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ഇത് യുടെ ഒരു ഫംഗ്ഷനാണെന്ന് ഞങ്ങൾ അനുമാനിക്കുന്നു ലിമിറ്റിൽ ഉള്ള ഫംഗ്ഷനാണെങ്കിൽ യുമായി ബന്ധപ്പെട്ട് തുടർച്ചയായ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവുകൾ ഉണ്ടെന്നാണ് ഈ നിയമം പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ യെ അടിസ്ഥാനമാക്കി നമുക്ക് നെ ഡിഫറെന്സിയേറ്റ് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ ഇന്റഗ്രലിന്റെ ഡിഫറെന്സിയേഷൻ നമുക്ക് എടുക്കാം കൂടാതെ ഈ ഇന്റഗ്രലിലേക്ക് പോകുമെന്ന് റൂൾ പറയുന്നു നമുക്ക് ഈ ന്റെ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഉണ്ടാകും അതിനാൽ ഈ ന്റെ ഡെറിവേറ്റീവ് സംബന്ധിച്ച് ഭാഗിക ഡെറിവേറ്റീവ് ആയിരിക്കും കാരണം ഇവിടെ രണ്ട് വേരിയബിളുകൾ ഉണ്ട് അതിനാൽ ഈ നെ സംബന്ധിച്ച ഭാഗിക ഡെറിവേറ്റീവ് തുടർന്ന് കുറച്ച് നിബന്ധനകൾ കൂടി ഉണ്ടാകും അതിനാൽ ഇവിടെ നിന്ന് ഡെറിവേറ്റീവ് എടുക്കാമെന്ന് നിയമം പറയുന്നു സംബന്ധിച്ച് നമുക്ക് f ന്റെ ഭാഗിക ഡെറിവേറ്റീവ് ലഭിക്കും അതിനുശേഷം ഉയർന്ന ലിമിറ്റിന്റെ ഡെറിവേറ്റീവിനോട് കൂട്ടുന്നു അതിനാൽ കിട്ടും എന്നിട്ട് താഴ്ന്ന ലിമിറ്റിനായി മൈനസ് ചെയ്യുന്നു അപ്പോൾ വീണ്ടും താഴ്ന്ന ലിമിറ്റിന്റെ ഡെറിവേറ്റീവ് ലഭിക്കും ഇവിടെയുള്ള ഫംഗ്ഷൻ ഇന്റഗ്രാന്റ് ൽ വിലയിരുത്തപ്പെടും അതിനാൽ ഇത് ഓർമിക്കാൻ എളുപ്പമുള്ള നിയമമാണ് ഈ ഇന്റഗ്രലിന്റെ ആയി എടുക്കുന്നു അതിനാൽ ഇത് ഈ ഡെറിവേറ്റീവിന് തുല്യമായിരിക്കും ഇത് ഇന്റഗ്രലിനുള്ളിലേക്ക് പോകുന്നു ഇത് സംബന്ധിച്ച് f എന്നതിന്റെ ഭാഗിക ഡെറിവേറ്റീവ് പോലെയാകും അതിനാൽ ഇത് ഒരു പദമാണ് രണ്ടാമത്തെ ടേമിന് ഉയർന്ന ലിമിറ്റിന്റെ ഡെറിവേറ്റീവ് ഉണ്ടാകും കൂടാതെ ഉയർന്ന ലിമിറ്റിൽ ഈ ഇന്റഗ്രാൻഡ് വീണ്ടും വിലയിരുത്തപ്പെടും അതിനാൽ ഈ x ഇവിടെ മൈനസ് ഉപയോഗിച്ച് അതേ അവസ്ഥയിൽ വീണ്ടും മാറ്റിസ്ഥാപിക്കും അതിനാൽ ന്റെ ഡെറിവേറ്റീവ് താഴ്ന്ന ലിമിറ്റ് മായി ബന്ധപ്പെട്ട് തുടർന്ന് ഇന്റഗ്രാന്റ് ഈ ൽ വീണ്ടും വിലയിരുത്തപ്പെടും അതിനാൽ ഇതാണ് ലീബ്നിറ്റ്സ് നിയമം ഇത് ഡിഫറൻഷ്യൽ കാൽക്കുലസിൽ ഞങ്ങൾ ഇതിനകം ചർച്ച ചെയ്ത അറിവോടെ വളരെ ലളിതമാണ് ഇത് തെളിയിക്കാൻ ഞങ്ങൾക്ക് കഴിയും അതിനാൽ ഇവിടെ ലീബ്നിറ്റ്സ് നിയമം ആൽഫ ന്റെ ഒരു ഫംഗ്ഷനായി ഈ ഇന്റഗ്രൽ ഞങ്ങൾ പരിശോധിക്കുന്നു എന്നിട്ട് ഈ ഇൻക്രിമെന്റ് എടുക്കുന്നതിലൂടെയുള്ള വർദ്ധനവ് പരിഗണിക്കുക അതിനാൽ ഞങ്ങൾക്ക് ഉണ്ട് അതിനാൽ ഇതിനൊപ്പം ഞങ്ങക്ക് ഇവിടെ ക്ക് ഉണ്ട് അതിനാൽ ഇവിടെ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കും അതിനാൽ നമുക്ക് ഉണ്ടാകും അതിനാൽ എവിടെയാണെങ്കിലും യെ ഉം ഉം ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കും അതിനാൽ വീണ്ടും അതേ ഇന്റഗ്രൽ ലഭിക്കും ഇപ്പോൾ ഞങ്ങൾ ഇവിടെ കുറച്ച് കൂടുതൽ കൃത്രിമം നടത്തും അതിനാൽ ഞങ്ങൾ ഇവിടെ യഥാർത്ഥത്തിൽ ദൃശ്യമാകുന്ന ചില നമ്പറുകളിലേക്ക് പോകുന്നു അതിനാൽ ഈ ഇന്റഗ്രൽ വരെ ഞങ്ങൾ ഇപ്പോൾ വിഭജിക്കാൻ പോകുന്നു അതിനാൽ ഈ നമ്പറിലേക്ക് പ്ലസ് തുടർന്ന് മറ്റേതെങ്കിലും നമ്പറിലേക്ക് ഈ അല്ലെങ്കിൽ ഇവിടെ ഫംഗ്ഷൻ തുടർന്ന് മുതൽ ലിമിറ്റിന്റെ അവസാനം വരെ

അതിനാൽ ഈ മൂന്ന് ഇന്റഗ്രലുകളുടെ ആകെത്തുകയായി ഞങ്ങൾ ഈ ഇന്റഗ്രൽ എടുത്തു അതിനാൽ മുതൽ വരെയും പിന്നീട് മുതൽ വരെയും പിന്നീട് അവസാന ലിമിറ്റിലേക്കും അതിനാൽ ഇത് ലിമിറ്റിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് നിരവധി ഇന്റർമീഡിയറ്റ് പോയിന്റുകൾ എടുക്കാം കൂടാതെ ഇന്റഗ്രലിനെ നിരവധി ഇന്റഗ്രലുകളായി വിഭജിക്കാം അപ്പോൾ നമുക്ക് ആ പദം കൃത്യമായി മൈനസ് ഉണ്ട് അതിനാൽ ഇപ്പോൾ ഞങ്ങൾ സമാന പദങ്ങൾ സംയോജിപ്പിക്കും അതിനാൽ ഇവിടെ നമുക്ക് മുതൽ വരെ സമാന ലിമിറ്റുകളുണ്ട് ഇവിടെ മുതൽ വരെ അതിനാൽ ഈ രണ്ട് പദങ്ങളും നിങ്ങൾ സംയോജിപ്പിക്കും തുടർന്ന് ഞങ്ങൾക്ക് ഇന്റെഗ്രന്റ് മൈനസ് ഉണ്ട് അതിനാൽ ഈ രണ്ട് പദങ്ങളും സംയോജിപ്പിക്കും തുടർന്ന് നമുക്ക് ഈ രണ്ട് പദങ്ങളും ഉണ്ടാകും അതിനാൽ ഈ രണ്ട് പദങ്ങളും സംയോജിപ്പിച്ചാൽ നമുക്ക് ലഭിക്കും അതിനാൽ ഇപ്പോൾ നമുക്ക് ഈ മൂന്ന് ഇന്റഗ്രലുകൾ ഉണ്ട് ഇപ്പോൾ ഞങ്ങൾ ശരാശരി മൂല്യ സിദ്ധാന്തം പ്രയോഗിക്കും അതിനാൽ ഇവിടെ നമുക്ക് എന്നിവയുടെ വ്യത്യാസമുണ്ട് അതിനാൽ രണ്ടാമത്തെ ആർഗ്യുമെൻറ് യിലാണ് വ്യത്യാസം അതിനാൽ ഇവിടെ ഞങ്ങൾ ഡിഫറൻഷ്യൽ കാൽക്കുലസിൽ നിന്നോ ലഗ്രാഞ്ച് ശരാശരി മൂല്യ സിദ്ധാന്തത്തിൽ നിന്നോ ഉള്ള ശരാശരി മൂല്യ സിദ്ധാന്തം പ്രയോഗിക്കും ഈ രണ്ട് ഇന്റഗ്രലുകളിൽ മുമ്പത്തെ സ്ലൈഡിൽ അവലോകനം ചെയ്ത ഇന്റഗ്രൽ കാൽക്കുലസിൽ നിന്നുള്ള ശരാശരി മൂല്യ സിദ്ധാന്തം ഞങ്ങൾ പ്രയോഗിക്കും

അതിനാൽ ആദ്യത്തെ ഇന്റഗ്രലിനായി ശരാശരി മൂല്യ സിദ്ധാന്തം ഉപയോഗിച്ച് ഞങ്ങൾക്ക് ഈ വ്യത്യാസമുണ്ട് അതിനാൽ ഇവിടെ കൊണ്ട് ഹരിച് ഗുണിച്ചാൽ നമുക്ക് ശരാശരി മൂല്യ സിദ്ധാന്തം പ്രയോഗിക്കാൻ കഴിയും അതിനാൽ ലഗ്രാഞ്ച് എഴുതിയ ശരാശരി മൂല്യ സിദ്ധാന്തം യെ അടിസ്ഥാനമാക്കിയുള്ള ഡെറിവേറ്റീവ് ആയിരിക്കും കാരണം ഇൻക്രിമെന്റ് യിലാണുള്ളത് ഡെറിവേറ്റീവ് യെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും ഒപ്പം f ഉം ഇവിടെ ചില പോയിന്റുകളും ഞങ്ങൾ ഇവിടെ വിളിക്കുന്നു അതിനാൽ കൃത്യമായി ഇവിടെ ഇടവേളയിൽ ഉൾപ്പെടുന്നു ഈ 0 ലേക്ക് പോയി 0 ലേക്ക് പോകുമെന്നത് ശ്രദ്ധിക്കുക അതിനാൽ പിന്നീട് ലിമിറ്റ് എടുക്കും അതിനാൽ ലേക്ക് പോകുമ്പോൾ സമീപിക്കുന്നത് പോലെ 0 ലേക്ക് സമീപിക്കും

അതിനാൽ ഇപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഇന്റഗ്രൽ ഉണ്ട് അത് ആയിരുന്നു ഇപ്പോൾ നമ്മൾ വീണ്ടും ഇന്റഗ്രൽ കാൽക്കുലസിൽ നിന്നുള്ള ശരാശരി മൂല്യ സിദ്ധാന്തം ഉപയോഗിക്കും ഇത് ഇവിടെ പറയുന്നത് ഇന്റഗ്രൽ x ന് ആധാരമാണ് അതിനാൽ ഇത് ഈ റഫറൻസിലെ ഒരു സ്ഥിരാങ്കം പോലെയാണ് അതിനാൽ ഇന്റഗ്രൽ x ന് ആധാരമാണ് അതിനാൽ ഈ റേഞ്ചിൽ എവിടെയെങ്കിലും ഒരു പോയിന്റ് ഉണ്ടാകും അല്ലെങ്കിൽ ഈ ഇന്റഗ്രലിന്റെ ലിമിറ്റ് ഉണ്ടാകും അവിടെ ഇന്റഗ്രൽ മൂല്യം f ന് തുല്യമായിരിക്കും അതിനാൽ ഇവിടെ ചില പോയിന്റുകൾ x നെ ഈ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കും ഉള്ളതുപോലെ തുടർന്ന് ലിമിറ്റ്കളുടെ വ്യത്യാസം അതിനാൽ ഇപ്പോൾ ഈ എവിടെയോ ഈ ലിമിറ്റുകളിൽ ഉൾപ്പെടുന്നു അതിനാൽ ഇന്റഗ്രൽ കാൽക്കുലസിന്റെ ശരാശരി മൂല്യ സിദ്ധാന്തം അതായിരുന്നു

ഇപ്പോൾ രണ്ടാമത്തെ ഇന്റഗ്രലിനായി അതേ സിദ്ധാന്തം ഞങ്ങൾ പ്രയോഗിക്കും അതിനാൽ ഈ x നെ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കും അതിനാൽ പോയിന്റ്ലെ ഈ ഫംഗ്ഷൻ മൂല്യനിർണ്ണയവും പരിധികളുടെ വ്യത്യാസവും അതിനാൽ വീണ്ടും ഈ അതിനാൽ ഈ മൂന്ന് ഇന്റഗ്രലുകൾ ഈ വലതുവശത്തുള്ള പദങ്ങളാൽ മാറ്റിസ്ഥാപിക്കപ്പെടും അതിനാൽ നമുക്ക് വീണ്ടും ഒരു അവിഭാജ്യവും ഈ രണ്ട് പദങ്ങളും ഉണ്ടാകും

അതിനാൽ ഇത് ഇന്റഗ്രലുകളുടെ രൂപത്തിലുള്ള ഒറിജിനൽ ആണ് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ എല്ലാം മാറ്റിസ്ഥാപിക്കും ഈ ലഗ്രാഞ്ച് ശരാശരി മൂല്യ സിദ്ധാന്തം ഞങ്ങൾ പ്രയോഗിച്ചു തുടർന്ന് ഇന്റഗ്രലിനായുള്ള ശരാശരി മൂല്യ സിദ്ധാന്തവും അതിനാൽ ആദ്യ ടേമിൽ നിന്ന് നമുക്ക് ലഭിക്കും കാരണം ഞങ്ങൾ ഇവിടെ ലഗ്രാഞ്ച് ശരാശരി മൂല്യ സിദ്ധാന്തം പ്രയോഗിച്ചു അതിനാൽ ഞങ്ങൾക്ക് ഈ f ആൽഫ ലഭിക്കുന്നു ഒപ്പം ഈ d ഡെൽറ്റ ആൽഫയും ഉണ്ടാകും രണ്ടാമത്തെ ടേം മുതൽ ഇന്റഗ്രൽ കാൽക്കുലസിൽ നിന്നുള്ള ശരാശരി മൂല്യ സിദ്ധാന്തവും വീണ്ടും ഇവിടെയും ഇന്റഗ്രൽ കാൽക്കുലസിൽ നിന്നുള്ള ശരാശരി മൂല്യ സിദ്ധാന്തവും ഞങ്ങൾ പ്രയോഗിച്ചു അതിനാൽ ഇപ്പോൾ ഈ മൂന്ന് ഇന്റഗ്രലുകൾ ഞങ്ങൾക്ക് ഇവിടെ പുതിയ പദങ്ങളുണ്ട് ഈ നിബന്ധനകളിലേക്ക് ഞങ്ങൾ കൊണ്ട് ഹരിക്കാം അതിനാൽ ഇവിടെ Δα ഇവിടെയും ഇത് ഇവിടെ നമ്മൾ കൊണ്ട് ഹരിക്കും ഇവിടെയും കൊണ്ട് ഹരിക്കാം

ഇപ്പോൾ ഉപയോഗിച്ചപ്പോൾ ഇത് ആണ് അതിനാൽ ഞങ്ങൾ ന്റെ വർദ്ധനവ് കൊണ്ട് വരുത്തുമ്പോൾ ഇത് ലെ വർദ്ധനവാണ് അതിനാൽ ഇത് ഉം ഇത് ഉം ആണ് അതിനാൽ ഈ നൊട്ടേഷൻ ഉപയോഗിച്ച് ഞങ്ങൾ ഇപ്പോൾ നീങ്ങുന്നു അതിനാൽ ഇവിടെ കൂടാതെ റദ്ദാക്കപ്പെടും ഇവിടെ അതിനാൽ ഇപ്പോൾ ഈ സമവാക്യത്തിൽ 0 ലേക്ക് പോകുമ്പോൾ നമുക്ക് ലിമിറ്റ് മറികടക്കാൻ കഴിയും ഇത് ഡെറിവേറ്റീവ് ആയി മാറും ഈ ആദ്യ ടേം അതിനാൽ ലേക്ക് പോകും നമുക്ക് ഉണ്ട് അതിനാൽ ഇത് ആയിരിക്കുമ്പോൾ ഇവിടെ നമുക്ക് ടേം ഉണ്ട് കൂടാതെ നും നും ഇടയിലാണ് അതിനാൽ ആയിരിക്കുമ്പോൾ ഈ ലേക്ക് പോകും ആയിരിക്കുമ്പോൾ ഇവിടെയും ഇത് ലേക്ക്പോകും ഇവിടെ ഇത് വീണ്ടും ഡെറിവേറ്റീവായി മാറും മൈനസ് അതേ കാര്യം ഇവിടെ നും നും ഇടയിലാണ് ആയിരിക്കുമ്പോൾ അതിനാൽ ഈ പദം ലേക്ക് പോകും അതിനാൽ നമുക്ക് ഇവിടെ ഉണ്ട് ഡെൽറ്റ ആൽഫ 0 ലേക്ക് പോകുമ്പോൾ ആൽഫയായിരിക്കും തുടർന്ന് ഡെൽറ്റ ആൽഫയ്ക്ക് മുകളിലുള്ള ഈ ഡെൽറ്റ u 1 വീണ്ടും u 1 ന്റെ ഡെറിവേറ്റീവ് ആയി മാറും ആൽഫയെ അടിസ്ഥാനമാക്കി ഞങ്ങൾ നിയമങ്ങൾ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് അതിനാൽ ഇത് ഇന്റഗ്രൽ ചിഹ്നത്തിന് കീഴിലുള്ള ഡിഫറെന്സിയേഷനാണ് ഇത് ഇന്റഗ്രാൻഡിലേക്ക് പോകും അതിനാൽ fന്റെ ഭാഗിക ഡെറിവേറ്റീവ് നെ അടിസ്ഥാനമാക്കി എന്ന പദം ഉണ്ടാകും അതിനാൽ ഇത് അപ്പർ ലിമിറ്റിന്റെ ഡെറിവേറ്റീവാണ് അതേ ലിമിറ്റ് ഇന്റഗ്രാൻഡിൽ പകരമാവുകയും താഴ്ന്ന ലിമിറ്റിന്റെ ഡെറിവേറ്റീവ് മൈനസ് ചെയ്യുകയും അതേ ലിമിറ്റ് ഫംഗ്ഷന് പകരമാവുകയും ചെയ്യും ഒരു പ്രത്യേക കേസിൽ എന്നിവ യെ ആശ്രയിക്കുന്നില്ലെന്ന് ഞങ്ങൾ അനുമാനിക്കുന്നു അതിനാൽ അവ സ്ഥിരമാണ് അതിനാൽ ഇവിടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ടേം റദ്ദാക്കപ്പെടും കാരണം 0 ആകുന്നു അതിനുശേഷം ഞങ്ങൾക്ക് ആദ്യത്തെ ടേം മാത്രമേയുള്ളൂ അതിനാൽ നമുക്ക് സ്ഥിരമായ ലിമിറ്റുകളുണ്ടെങ്കിൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്റഗ്രൽ ചിഹ്നത്തിന് കീഴിൽ വേർതിരിക്കുമ്പോൾ നമുക്ക് ഒരു പദം മാത്രമേ ഉണ്ടാകൂ കാരണം ഈ രണ്ട് പദങ്ങളും റദ്ദാക്കപ്പെടും അല്ലെങ്കിൽ സാധാരണയായി ഈ ഇന്റഗ്രലിന്റെ പോലെ ഞങ്ങൾ എഴുതുന്നു അതിനാൽ ഈ ഈ പരിധികൾ സ്ഥിരമായതിനാൽ ഞങ്ങൾ ഇന്റഗ്രാൻഡിലേക്ക് പോകും ഇന്റഗ്രൽ ചിഹ്നത്തിന് കീഴിൽ നമുക്ക് ഈ ഡിഫറെന്സിയേഷനുണ്ട് അതിനാൽ നമുക്ക് ഈ ഡെറിവേറ്റീവിനെ ഇന്റഗ്രലിലേക്ക് കൊണ്ടുപോകാൻ കഴിയും പക്ഷേ ഇത് ഭാഗിക ഡെറിവേറ്റീവ് പോലെയാകും കാരണം f രണ്ട് വേരിയബിളുകളായ x എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു OR ഉദാഹരണം 1 ൽ ആണെങ്കിൽ ഇന്റഗ്രൽ എന്ന് കാണിക്കും അതിനാൽ ഇന്റഗ്രലിനു കീഴിലുള്ള ഡിഫറെന്സിയേഷൻ എന്ന ആശയം അത്തരം സങ്കീർണ്ണമായ ഇന്റഗ്രലുകളെ കണക്കുകൂട്ടാൻ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് മാത്രമല്ല ഇന്റഗ്രേഷൻ ചിഹ്നത്തിന് കീഴിലുള്ള ഡിഫറെന്സിയേഷൻ എന്ന ആശയം ഉപയോഗിച്ച് അവ വളരെ ലളിതമായിത്തീരുന്നു കാരണം ഈ സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ നൽകിയ ഇന്റഗ്രലിനെ aന്റെ ഫംഗ്ഷനായി കണക്കാക്കുന്നു കാരണം അവിടെ a ടാൻ ഇൻവെർസാണ് അതിനാൽ ഇത് നൽകിയ ഇന്റഗ്രൽ a യുടെ ഒരു ഫംഗ്ഷനായി ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ ഡെറിവേറ്റീവ് എടുക്കും അല്ലെങ്കിൽ aയെ ആധാരമാക്കി ഡിഫറെന്സിയേറ്റ് ചെയ്യുന്നു അതിനാൽ ഡിഫറെന്സിയേഷൻ ഉപയോഗിച്ച് നമുക്ക് കുറച്ച് ലളിതവൽക്കരണമോ ഫലമായുണ്ടാകുന്ന ഇന്റഗ്രലോ കാണാൻ കഴിയുമെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പരിഹരിക്കാനാകും ഇത് ഉപയോഗപ്രദമാകും കാരണം ഈ രൂപത്തിൽ നൽകിയിരിക്കുന്ന ഇന്റഗ്രൽ വിലയിരുത്തുന്നതിന് അൽപ്പം സങ്കീർണ്ണമാണ് പക്ഷേ ഇവിടെ aയെ ആധാരമാക്കി ഡിഫറെന്സിയേറ്റ് ചെയ്താൽ എന്തുസംഭവിക്കും അതിനാൽ ലിമിറ്റുകളെ ഇവിടെ സ്ഥിരമായി കണക്കാക്കും എന്നിരുന്നാലും പൊതുവേ ഈ ലീബ്നിറ്റ്സ് നിയമം അല്ലെങ്കിൽ ഇന്റഗ്രൽ ചിഹ്നത്തിന് കീഴിലുള്ള ഡിഫറെന്സിയേഷൻ ഇംപ്രോപ്പർ ഇന്റഗ്രലുകൾക്ക് സാധുതയുള്ളതല്ലെന്ന് നിയമം തെളിയിച്ചു ഞങ്ങൾക്ക് പൊതുവായി ചില അധിക നിബന്ധനകൾ ആവശ്യമാണ് എന്നാൽ ഈ ഉദാഹരണങ്ങളെല്ലാം ബാധകമാണ് ഇoപ്രോപ്പർ ഇന്റഗ്രലുകൾക്കായി ഈ ലീബ്നിറ്റ്സ് നിയമത്തിന്റെ പ്രയോഗക്ഷമതയെക്കുറിച്ചുള്ള വിശദാംശങ്ങളിലേക്ക് ഞങ്ങൾ കൂടുതൽ പോകുന്നില്ല അതിനാൽ ഇവിടെ പരിഗണിക്കുന്ന എല്ലാ ഉദാഹരണങ്ങൾക്കും ഈ നിയമം ബാധകമാണ് അതിനാൽ ഇവിടെ ഈ സ്ഥിരമായ ലിമിറ്റുകളെ പരിഗണിക്കുന്നതിലൂടെ നമുക്ക് a യുമായി ഡിഫറെന്സിയേഷറ്റ് ചെയ്യാൻ കഴിയും അതിനാൽ ഇപ്പോൾ നമുക്ക് ഇത് എളുപ്പത്തിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ കഴിയും അതിനാൽ അതിനാൽ ഞങ്ങൾക്ക് ഇവിടെ ഈ ഡെറിവേറ്റീവ് ലഭിച്ചു ഇത് എല്ലായ്പ്പോഴും എളുപ്പമാക്കുന്ന പ്രക്രിയയാണ് കാരണം ഇപ്പോൾ നമുക്ക് ഈ ഡിഫറൻഷ്യൽ സമവാക്യം എളുപ്പത്തിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ കഴിയും അതിനാൽ നമുക്ക് ലഭിക്കും ഇന്റഗ്രേഷന്റെ സ്ഥിരത ഒരു ഏകപക്ഷീയമായ സ്ഥിരാങ്കമാണ് പക്ഷേ ആ സ്ഥിരാങ്കവും വിലയിരുത്താൻ എളുപ്പമാണ് കാരണം ഇത് ഉം ഉം ആണെന്ന് ഞങ്ങൾ അറിഞ്ഞിരിക്കണം അതിനാൽ മൂല്യം അതിനാൽ ഇന്റഗ്രൽ മൂല്യം എളുപ്പത്തിൽ അറിയുന്നിടത്ത് ഞങ്ങൾ എടുക്കും അതിനാൽ ഇത് ആണ് അതിനാൽ നമുക്ക് ഇവിടെ v ഉണ്ട് ഈ സ്ഥിരാങ്കo cയെ വിലയിരുത്താൻ നൽകിയിയിരികുന്ന ഈ വിവരങ്ങൾ ഇവിടെ ഉപയോഗിക്കാം ആണ് അതിനാൽ ഇവിടെ 0 അതിനാൽ വീണ്ടും അതിനാൽ c 0 ന് തുല്യമാണ് അതിനാൽ നമുക്ക് ഈ സ്ഥിരാങ്കം 0 ആയി ലഭിച്ചു തുടർന്ന് അതിനാൽ ഈ ലോഗ് നാച്ചുറൽ ലോഗരിഥമിക് ലോഗ് മാത്രമാണ് ഇത് ഞങ്ങൾ തെളിയിക്കാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഈ ലീബ്നിറ്റ്സ് റൂൾ അല്ലെങ്കിൽ ഇന്റഗ്രൽ ചിഹ്നത്തിന് കീഴിലുള്ള ഡിഫറെന്സിയേഷൻ വളരെ എളുപ്പത്തിൽ ഉപയോഗിച്ചാണ് ഞങ്ങൾക്ക് ഈ മൂല്യം ലഭിച്ചത് അതിനാൽ മറ്റൊരു ഉദാഹരണം ഇവിടെ വിലയിരുത്തുന്നത് ഞങ്ങൾ കണക്കാക്കും അതിനാൽ വീണ്ടും അതേ പ്രക്രിയ അതിനാൽ ഞങ്ങൾ ആയി എടുക്കുകയും അതിന്റെ ഡെറിവേറ്റീവ് നേടുകയും ചെയ്യും

എന്നതുമായി ബന്ധപ്പെട്ട ഈ αx നമുക്ക് x തരും അതാണ് കൃത്യമായ പോയിന്റ് കാരണം ഇത് ഭാഗികമായി ഡിഫറെന്സിയേറ്റ് ചെയ്യുന്നത് എളുപ്പമല്ല എന്നാൽ ഇപ്പോൾ x ഇവിടെ ഉപയോഗിച്ച് പ്രത്യക്ഷപ്പെട്ടതിനാൽ ഇപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഡിഫറെന്സിയേറ്റ് ചെയ്യാൻ കഴിയും അതിനാൽ നമുക്ക് ഈ പദം എളുപ്പത്തിൽ ഇന്റഗ്രേറ്റ് ചെയ്യാനും കഴിയും അതിനാൽ നമുക്ക് ഇന്റഗ്രലിന്റെ ഭാഗിക നിയമം ബാധകമാക്കാം അതിനാൽ അങ്ങനെ ചെയ്യുന്നതിലൂടെ ഞങ്ങൾക്ക് ഇത് ലഭിക്കും X ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഇത് 0 ലേക്ക് പോകും X 0 ലേക്ക് പോകുമ്പോൾ sin കാരണം ഇത് 0 ലേക്ക് പോകും അതിനാൽ ആദ്യത്തെ ടേം അപ്രത്യക്ഷമാകും രണ്ടാമത്തേത് ഈ മൈനസ് sin പകുതിയോടെയും ഈ e പവർ മൈനസ് x സ്ക്വയർ കോസ് ആൽഫ x അതേ ഇന്റഗ്രലായും ഞങ്ങൾ phi a ഉപയോഗിച്ച് ആരംഭിച്ചു അതിനാൽ ഇത് മൈനസ് ആൽഫ ബൈ 2 പോലെയാകും കൂടാതെ ഈ phi a അതിനാൽ മൈനസ് ആൽഫ 2 ഉം ഈ phi aയും സമാന ഇന്റഗ്രലും അതിനാൽ നമുക്ക് ഈ ഡിഫറൻഷ്യൽ സമവാക്യം ലഭിക്കുന്നു അതിനാൽ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വളരെ ലളിതമാണ് അതിനാൽ നമുക്ക് ഈ ഇടത് വശത്തേക്ക് കൊണ്ടുപോകാം ഇവിടെ വലതുഭാഗത്തേക്ക് പോയി ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാo അതിനാൽ നമുക്ക് ഈ ഉം ഇത് ഉം ലഭിക്കും അതിനാൽ നമുക്ക് ലഭിക്കും e പവർ c നമുക്ക് മറ്റൊരു സ്ഥിരാങ്കം കണക്കാക്കാം അതിനാൽ ഞങ്ങൾക്ക് ഉണ്ട് ഇപ്പോൾ ഇത് ആണെന്ന് ഞങ്ങൾ ശ്രദ്ധിക്കുന്നു മുമ്പത്തെ പ്രഭാഷണങ്ങളിലും ഞങ്ങൾ കണ്ടത് ഈ ഇന്റഗ്രല്ലുകളാണ് അടുത്ത പ്രഭാഷണങ്ങളിൽ ഇത് ന് തുല്യമാണെന്ന് ഞങ്ങൾ തെളിയിക്കും അതിനാൽ ഈ സ്റ്റാൻഡേർഡ് ഇന്റഗ്രലിന്റെ ഈ മൂല്യം ആണ് അതിനാൽ നമുക്ക് അറിയാം അതിനാൽ ഇതുവഴി നമുക്ക് ഇപ്പോൾ കണക്കുകൂട്ടാം അതിനാൽ ആയിരിക്കും കാരണം നമ്മൾ ഇടുകയാണെങ്കിൽ അതാണ് ഞങ്ങൾ വിലയിരുത്താൻ ആഗ്രഹിക്കുന്ന ഇന്റഗ്രലിന്റെ മൂല്യം അതിനാൽ മൂന്നാമത്തെ ഉദാഹരണം വീണ്ടും വളരെ ലളിതമാണ് അതിനാൽ ഞങ്ങൾക്ക് ഉണ്ട് ഈ ലഭിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇവിടെ α ≠ 0 അതിനാൽ ഇന്റഗ്രൽ sinന് കീഴിലുള്ള ഡിഫറെന്സിയേഷന്റെ നേരിട്ടുള്ള പ്രയോഗമാണിത് അതിനാൽ ഈ ഇന്റഗ്രൽ ഡിഫറെന്സിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനാൽ ഇത് ലീബ്നിറ്റ്സ് നിയമത്തിന്റെ നേരിട്ടുള്ള പ്രയോഗമായിരുന്നു നിഗമനത്തിലെത്തുമ്പോൾ ഈ ലീബ്നിറ്റ്സ് നിയമം ഞങ്ങൾ പഠിച്ചു ഇത് ഇന്റഗ്രലുകളെ ഡിഫറെന്സിയേറ്റ് ചെയ്യുന്നതിന് ഉപയോഗപ്രദമാണ് അതിനാൽ ഞങ്ങൾക്ക് എന്ന ഇന്റഗ്രൽ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഡെറിവേറ്റീവ് നെ അടിസ്ഥാനമാക്കി എടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഈ നിയമം അത് പറയുന്നു അതിനാൽ അതാണ് ലെബ്നിറ്റ്സ് നിയമം ഈ പ്രഭാഷണങ്ങൾ തയ്യാറാക്കാൻ ഞങ്ങൾ ഉപയോഗിച്ച റഫറൻസുകളാണിത് വളരെ നന്ദി